എന്റെ കൂടെ മിസ്റ്റർ സഞ്ജയ് പട്ടേൽ പഠിച്ച വ്യത്യസ്തമായ സാങ്കേതികവിദ്യകൾ എങ്ങനെയെല്ലാം സ്വീകരിക്കാമെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ കമ്പനിയുടെ ചോദിക്കാം നിലവിലെ പ്രവർത്തന രീതി എന്താണ് ഇൻഡസ്ട്രി 4 0 ഇത് മിസ്റ്റർ പട്ടേൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് ദയവായി വിശദീകരിക്കാമോ നമസ്കാരം ഞങ്ങളുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ സൈക്കിൾഎന്നിവയാണ് വീൽ റിമ്മുകളുടെ ചെയ്യുന്നു പിന്നീട് ഈ CRC സ്ട്രിപ്പുകൾ വഴിയാണ് ഈ കമ്പനിയുടെ ലഭ്യമാക്കാൻ പോകുന്നു അതിനാൽ ഈ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ദയവായി ഞങ്ങളോട് പറയാമോ ഞാൻ ഗുജറാത്തിൽ ചെയ്യുകയും ചെയ്യുന്നു

അപ്പോൾ ഇവിടെ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവയെക്കുറിച്ച് വിശദീകരിക്കാമോ സ്ട്രിപ്പിന്റെ താപനില നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സെൻസറുകൾ ഏതെല്ലാമാണ് ഇവിടെ താപനില വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് വളരെ നന്ദി മിസ്റ്റർ പട്ടേൽ അതിനാൽ ഈ കമ്പനിയിൽ ഉണ്ട് അവർ PLC ഉപയോഗിക്കുന്നുണ്ട് ഈ കോഴ്സിൽഉണ്ട് എന്നാൽ അവ പരസ്പരം ബന്ധിപ്പിച്ചിട്ടില്ല

ഡാറ്റആശയവിനിമയത്തിന്റെ വശങ്ങൾ ഇവയെല്ലാം നടപ്പിലാക്കേണ്ടതുണ്ട് ഈ ഡാറ്റയെല്ലാം ചെയ്യുന്നു അതിനാൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് സ്വീകരിക്കാവുന്നതാണ് അതിനുശേഷം അനലിറ്റിക്സ് എന്നിവയും സ്വീകരിക്കാവുന്നതാണ് അതിനാൽ നമുക്ക് പ്രക്രിയകൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ച നിലവാരം പുലർത്താനും കഴിയും ഞാൻ നേരത്തെ പരാമർശിക്കാൻ മറന്ന ഒരു കാര്യം സുരക്ഷയെക്കുറിച്ചാണ് മിക്ക വ്യവസായങ്ങളിലും സുരക്ഷ വളരെ പ്രധാനമാണ് അവരും വളരെ ഗൌരവമായാണ് സുരക്ഷയെ കാണുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് സേഫ്റ്റി ഡൊമൈനിൽ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് പ്രക്രിയകൾ ഉൽപ്പന്ന ഗുണനിലവാരം ജോലി സ്ഥലത്തെ സുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഇവയ്ക്കു സമഗ്രമായ രീതിയിൽ സംഭാവന ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആദ്യ ഘട്ടങ്ങൾ സ്വീകരിച്ച ഒരു കമ്പനിയാണ്സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് അതിനാൽ IoT സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നത് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവരെ സഹായിക്കും നന്ദി ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു കമ്പനിയിലാണ് ക്ഷണിക്കുന്നു

എന്റെ പേര് ഭരത് പട്ടേൽ മെറ്റൽ ടെക്സിജൻസി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഞങ്ങൾ ഷീറ്റ് മെറ്റലും നിർമ്മിക്കുന്നു മിസ്റ്റർ പട്ടേൽ ഞങ്ങൾ ഒരു പ്രത്യേക കോഴ്സിനായാണ് പേര് ഇതൊരുNPTELആണ് ഇത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകാൻ പോകുന്ന കോഴ്സ് ൽ സ്വീകരിക്കുന്നതിനായി എന്തെല്ലാം ചെയ്യാം എന്നും നോക്കുന്നു എന്റെ പേര് കേവൽ ഗൻവീർ ആണ്

ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഓഫീസിൽ ചെയ്യുന്നു ഈ മെഷീനിൽ പ്രക്രിയ ആരംഭിക്കുന്നു ഇതോടെ മുഴുവൻ പഞ്ചിംഗ് കഴിഞ്ഞോ അതെ പഞ്ചിംഗ് അതിനുശേഷം ഞങ്ങൾ പൌഡർ കോട്ടിങ് ഒരു ക്രെയിനിൽ അതിനുശേഷം പൂർണ്ണമായ സ്പെയർ പാർട് നിർമ്മിക്കുന്നു പിന്നെ ഞങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോഡൽ ചെയ്ത് മോഡൽ പൂർണ്ണമാക്കുന്നു ഒരു ബോക്സ് രീതിയിലുള്ള ഘടകം ഉണ്ടാക്കുന്നു ഈ കമ്പനിയിലെ നടക്കുന്നത് CNC യ്ക്കും PLC കൾക്കും ധാരാളം സമാനതകളുണ്ട് എന്നാൽ CNC കളുടെയും PLC മെഷീനുകളുടെയുംനിന്നാണ് ഇന്റർകണ്ണെക്ടഡ് സെൻസേർസ് ആയിരിക്കും ഇവയിൽ ചിലത് ഗുണനിലവാരത്തെക്കുറിച്ചും നടത്തുന്ന പ്രക്രിയകളെക്കുറിച്ചും വ്യത്യസ്തമായ ആശയങ്ങൾ നൽകും ഇതാണ് പ്രെസ്ക്രിപ്റ്റീവ് ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ നൽകും ഇതിനെല്ലാം ഞങ്ങളുടെ പക്കലുള്ളത് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളുടെ ഉപയോഗിച്ച് വ്യത്യസ്തവും കൌതുകകരവും ആയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ഇത് ഇപ്പോഴും ഈ കമ്പനിയിൽ ഇല്ല അതിനാൽ കമ്പനികളിൽ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും ഓട്ടോമേഷൻ എന്നിവ എന്താണെന്നു അവരെ വേണ്ടത്ര ബോധവൽക്കരിക്കുക സിസ്റ്റങ്ങളുടെ ഉയർന്ന സുരക്ഷ ഉറപ്പാക്കാം ഗുണനിലവാരം വിശ്വാസ്യത സുരക്ഷ ഇവയെല്ലാം നടപ്പിലാക്കാനും പ്രക്രിയകളിലേക്കും സിസ്റ്റത്തിലേക്കും അയക്കുകയുംചെയ്യുന്നു